നമസ്കാരം അവസാന ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഇന്ന് നമ്മൾ സ്റ്റേറ്റ് ട്രാന്സിഷൻ മാട്രിക്സിനെക്കുറിച്ച് ചർച്ച ചെയ്യും അതിനാൽ ഇന്നത്തെ ചർച്ച ആരംഭിക്കാം സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സിലേക്ക് പോകുന്നതിനുമുമ്പ് സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിന്ന് നിങ്ങൾ എങ്ങനെ സ്റ്റേറ്റ് ഔട്ട്പുട്ട് സമവാക്യങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആദ്യം മനസിലാക്കാം ഇപ്പോൾ സ്റ്റേറ്റ് സമവാക്യവും ഔട്ട്പുട്ട് സമവാക്യങ്ങളും നേരിട്ട് നേടാൻ കഴിയുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാം അതിനാൽ സ്റ്റേറ്റ് ഡയഗ്രം സ്റ്റേറ്റ് സമവാക്യം ഔട്ട്പുട്ട് സമവാക്യം എന്നിവയുടെ സഹായത്തോടെഅതായത് ഇതെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു അതിനാൽ സ്റ്റേറ്റ് ഡയഗ്രാമിൻറെ സഹായത്തോടെ സ്റ്റേറ്റ് സമവാക്യം അല്ലെങ്കിൽ ഔട്ട്പുട്ട് സമവാക്യങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്ന് ഇന്ന് നമ്മൾ കാണും അതിനായി നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഗേയിൻ സൂത്രവാക്യം എന്നിവ ഉപയോഗിക്കുന്നു അപ്പോൾ എന്താണ് സ്റ്റേറ്റ് സമവാക്യം മുമ്പത്തെ ക്ലാസുകളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഓർമിക്കാം അതിനാൽ സ്റ്റേറ്റ് സമവാക്യംആണ് ഔട്ട്പുട്ട് സമവാക്യം എന്ന് എഴുതാം ഇപ്പോൾ x സ്റ്റേറ്റ് വേരിയബിൾ ആണ് r ആണ് ഇൻപുട്ട് y ആണ് ഔട്ട്പുട്ട് a b c d എന്നിവ കോൺസ്റ്റന്റ് ഗുണകങ്ങൾ ആണ് അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഔട്ട്പുട്ട് സമവാക്യം നിർവചിക്കാൻ കഴിയും ഇപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിന്ന് സ്റ്റേറ്റ് ഔട്ട്പുട്ട് സമവാക്യങ്ങളും നേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം അതിനാൽ സ്റ്റേറ്റ് ഡയഗ്രാമിൽ ഗേയിനുകൾക് പുറമേ പ്രാരംഭ സ്റ്റേറ്റുകളും ഇന്റഗ്രേറ്റർ ശാഖകളും ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു അവ ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് ബന്ധിപ്പിക്കുന്നു അതിനാൽ സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിന്ന് സ്റ്റേറ്റ് ഔട്ട്പുട്ട്സമവാക്യവും ലഭിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രാരംഭ സ്റ്റേറ്റ് ഇല്ലാതാക്കുക അതായത് സമയം t എന്നത് 0 ന് തുല്യമാണെന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയമായിരിക്കാം അതായത് t0 എന്ന് പറയുക അതിനാൽ പ്രാരംഭ സ്റ്റേറ്റ് എന്തൊക്കെയാണ് പ്രാരംഭ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിന്ന് നമ്മൾ നീക്കംചെയ്യും സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിന്ന് ആയി നേട്ടമുണ്ടാക്കുന്ന ഇന്റഗ്രേറ്റർ ബ്രാഞ്ചുകളും നമ്മൾ നീക്കംചെയ്യും എന്തുകൊണ്ടാണ് ഇത് നീക്കംചെയ്യുന്നത് കാരണം സ്റ്റേറ്റ് ഔട്ട്പുട്ട് സമവാക്യങ്ങളിൽ ലാപ്ലേസ് ഓപ്പറേറ്റർ എസ് അല്ലെങ്കിൽ പ്രാരംഭ സ്റ്റേറ്റ് അടങ്ങിയിട്ടില്ല അതിനാൽത്തന്നെ ഈ രണ്ട് ഘടകങ്ങളും നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിന്ന് നീക്കംചെയ്യുന്നു ഇപ്പോൾ സ്റ്റേറ്റ് സമവാക്യത്തിനായി സ്റ്റേറ്റ് വേരിയബിളുകളുടെ ഡെറിവേറ്റീവുകളെ ഔട്ട്പുട്ട് നോഡുകളായി പ്രതിനിധീകരിക്കുന്ന നോഡുകൾ നമ്മൾ കണ്ടെത്തുന്നു അതിനാൽ ഇത് സ്റ്റേറ്റ് സമവാക്യത്തിൻറെ ഇടതുവശമായി മാറും ഔട്ട്പുട്ട് സമവാക്യത്തിലും ഔട്ട്പുട്ട് y തിരിച്ചറിയപ്പെടും അത് സ്വാഭാവികമായും സ്റ്റേറ്റ് ഡയഗ്രാമിലെ ഔട്ട്പുട്ട്നോഡ് വേരിയബിൾ ആയ y നെ പ്രതിനിധീകരിക്കും അടുത്തതായി സ്റ്റേറ്റ് ഡയഗ്രാമിലെ സ്റ്റേറ്റ് വേരിയബിളുകളെയും ഇൻപുട്ടുകളെയും ഇൻപുട്ട് വേരിയബിളായി നമ്മൾ തിരിച്ചറിയും കൂടാതെ ഈ വേരിയബിളുകൾ വലതുവശത്ത് സ്റ്റേറ്റ് ഔട്ട്പുട്ട് സമവാക്യങ്ങളിലും കാണാം അവസാനം നമ്മൾ സ്റ്റേറ്റ്ഡയഗ്രാമിലേക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഗേയിൻ സൂത്രവാക്യം പ്രയോഗിക്കുന്നു നമുക്ക് ഒരു ഉദാഹരണം നോക്കാം അതുവഴി സ്റ്റേറ്റ് ഡയഗ്രത്തിൻറെ സഹായത്തോടെ നമുക്ക് സ്റ്റേറ്റ് ഔട്ട്പുട്ട് സമവാക്യവും എങ്ങനെ കണ്ടെത്താമെന്ന് മനസിലാക്കാൻ കഴിയും നമുക്ക് നോക്കാം ഇത് പ്രാരംഭ സ്റ്റേറ്റ് ഉം ഇന്റഗ്രേറ്റർ വിഭാഗം 1s ഉം നീക്കം ചെയ്ത സ്റ്റേറ്റ് ഡയഗ്രമാണ് ആണ് അതിനാൽ നമുക്ക് ഗേയിനുകളും സ്റ്റേറ്റ്കളും മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതിനാൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ r ഇത് സ്റ്റേറ്റ്ലേക്ക് പോകുന്ന ഇൻപുട്ടാണ് ഇത് സ്റ്റേറ്റ് ഡയഗ്രാമിൽ നൽകിയിരിക്കുന്ന x1 y യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്ന് പറയട്ടെ അതിനാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് എന്ന് എഴുതാം അതിനാൽ ഇത് ഔട്ട്പുട്ട് സമവാക്യം നൽകും ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് സമവാക്യം കണ്ടെത്താൻ ശ്രമിക്കാം അതിനാൽ ഈ നോഡ് കാണുമ്പോൾ നമുക്ക് ഒരു സമവാക്യം ആയി ലഭിക്കും അടുത്ത നോഡ് നമുക്ക് ഉണ്ട് അതിനാൽ സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റേറ്റ് സമവാക്യം ഇങ്ങനെ ലഭിക്കും ഔട്ട്പുട്ട് സമവാക്യം നമ്മൾ ഇതിനകം കണ്ടതാണ് അതിനാൽ നിങ്ങൾ ഇങ്ങനെയാണ് സ്റ്റേറ്റും ഔട്ട്പുട്ട് സമവാക്യങ്ങളും നിർമ്മിക്കുന്നത് ഇനി നമുക്ക് സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സിനെക്കുറിച്ച് സംസാരിക്കാം എന്താണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് അതിനാൽ മുമ്പത്തെ സ്ലൈഡിൽ ഒരു ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റത്തിൻറെ സ്റ്റേറ്റ് സമവാക്യങ്ങൾ ഈ രൂപത്തിൽ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ അടുത്ത ഘട്ടം ഈ സമവാക്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുകയാണ് നമുക്ക് ഒരു പ്രാരംഭ സ്റ്റേറ്റ് വെക്റ്റർ xt0 ഉണ്ടെന്ന് കരുതുക t≥0 നായുള്ള ഇൻപുട്ട് വെക്റ്റർ u ഇപ്പോൾ നിങ്ങൾ ഈ സമവാക്യം കണ്ടാൽ മുകളിലുള്ള സമവാക്യത്തിൻറെ വലതുഭാഗത്തെ സ്റ്റേറ്റ് സമവാക്യത്തിൻറെ ഏകതാനമായ ഭാഗം എന്നും അടുത്ത പദം u എന്നത് ഫോഴ്സിങ് ഫംഗ്ഷൻ ഉം ഇപ്പോൾ അത് u0 ആണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നമ്മൾക്ക് ഏകതാനമായ സമവാക്യം ഉണ്ട് അതിനാൽ ഏകതാനമായ സമവാക്യം അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ n × n മാട്രിക്സ് ആയ ഒരു മാട്രിക്സ് ഉണ്ടെന്നും അത് സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സിനെ പ്രതിനിധീകരിക്കുന്നുവെന്നും കരുതുക അതിനാൽ അത് സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സാണെങ്കിൽ അത് ഇനിപ്പറയുന്ന സമവാക്യത്തെ തൃപ്തിപ്പെടുത്തണം അതായത് d ഇപ്പോൾ x പ്രാരംഭ അവസ്ഥയെ അതായത് t0 എന്ന് സൂചിപ്പിക്കുന്നുവെങ്കിൽ എന്നത് മാട്രിക്സ് സമവാക്യത്താൽ നിർവചിക്കപ്പെടുകയും നിങ്ങൾക്ക് എഴുതാം അതിനാൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ്എന്നാൽ t 0 എന്ന സമയത്തെ ഏതൊരു സ്റ്റേറ്റിനെയും മറ്റ് ഏതെങ്കിലും സമയത്തെ സ്റ്റേറ്റിനെ അതായത് t സമയത്തെ സ്റ്റേറ്റിനെ ബന്ധിപ്പിക്കുന്ന മാട്രിക്സ് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾക്ക് ലഭിച്ച ഈ സമവാക്യം ഏകതാനമായ സ്റ്റേറ്റ് സമവാക്യത്തിൻറെ ഉത്തരം ആണ് ഇപ്പോൾ എ ബി എക്സ് എന്നിവപോലുള്ള മറ്റ് പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ യുടെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ നമ്മൾ എന്തു ചെയ്യും ഈ സമവാക്യത്തിൻറെ ഇരുവശത്തും ലാപ്ലേസ് പരിവർത്തനം എടുക്കുന്നതിലൂടെ യുടെ മൂല്യം നിർണ്ണയിക്കാനാകും അതാണ് നമുക്ക് ലഭിച്ച ഏകതാനമായ സമവാക്യം അതിനാൽ നിങ്ങൾ ഇരുവശത്തും ലാപ്ലേസ് പരിവർത്തനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക ഈ ഭാഗത്തു നിങ്ങൾക്ക് എഴുതാം ഇപ്പോൾ നിങ്ങൾ പദങ്ങൾ പുനക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അതിനാൽ ഇതാണ് നിങ്ങൾക്ക്ൻറെ മൂല്യം ലഭിക്കുന്നത് ഇപ്പോൾ ഈ മാട്രിക്സിൻറെ ഇൻവെർസ് എടുക്കുന്നത് കണ്ടാൽ അത് ആണ് അതിനാൽ ഇവിടെ നാം അനുമാനിക്കേണ്ട പ്രധാന കാര്യം മാട്രിക്സ് നോൺ സിംഗുലാർ ആണ്അതായത് ഈ പ്രത്യേക മാട്രിക്സിൻറെ നിർണ്ണയം 0 ന് തുല്യമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഇൻവെർസ് ലാപ്ലേസ് പരിവർത്തനം രണ്ട് വശത്തും എടുക്കാം ഇപ്പോൾ സ്റ്റേറ്റ് ട്രാന്സിഷൻ മാട്രിക്സിൻറെ കാര്യത്തിൽ നമ്മൾ കണ്ടെത്തിയ പ്രാരംഭ സമവാക്യവുമായി ഇത് താരതമ്യം ചെയ്യാം അതായത് x അതായത് ഏത് സമയത്തെയും സ്റ്റേറ്റ് പ്രാരംഭ അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സിൻറെ സഹായത്തോടെ അതിനാൽ ഇവ രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സിൻറെ മൂല്യം നേടാനാകും

ഇപ്പോൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സിൻറെ പ്രാധാന്യം എന്താണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് ഏകതാനമായ സ്റ്റേറ്റ് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നതിനാൽ ഇത് സിസ്റ്റത്തിൻറെ സ്വതന്ത്ര പ്രതികരണത്തെ പ്രതിനിധീകരിക്കുന്നു സ്വതന്ത്രമായ പ്രതികരണം എന്നാൽ പ്രാരംഭ വ്യവസ്ഥകളാൽ ഉത്തേജിതമായ പ്രതികരണമാണ് അതായത് നിർബന്ധിത പ്രവർത്തനം u 0 എന്ന് നിലനിർത്തുന്നത് ഇപ്പോൾ മുൻ സ്ലൈഡിൽ നമ്മൾ കണ്ട മുൻ സമവാക്യത്തിൻറെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് മാട്രിക്സിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് മാട്രിക്സ് A യെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ചിലപ്പോൾ ഇത് A യുടെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സായി പരാമർശിക്കുന്നത് ഇപ്പോൾ പേര് ബാധകമാകുന്നതുപോലെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് കാണാം അതിനാൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് പ്രാരംഭ സമയം മുതൽ സ്റ്റേറ്റ്ൻറെ പരിവർത്തനത്തെ പൂർണ്ണമായും നിർവചിക്കുന്നു അതായത് t 0 മുതൽ ഏതു സമയം t വരെയും എപ്പോഴൊക്കെ ആണോ ഇൻപുട്ട് 0 ആയിരിക്കുന്നത് അപ്പോഴെല്ലാം അതിനാൽ ഇത് സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സിൻറെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ആണ് കാരണം ഇതിൻറെ സഹായത്തോടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും x ൻറെ മൂല്യം പൂർണ്ണമായി കണ്ടെത്താൻ കഴിയും പ്രാരംഭ അവസ്ഥ തന്നിട്ടുണ്ടെങ്കിൽ അതായത് t0 ആയ അവസ്ഥ ഇനി നമുക്ക് സ്റ്റേറ്റ് ട്രാൻസിഷൻ സമവാക്യത്തെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ലീനിയർ ഏകതാനമായ സ്റ്റേറ്റ് സമവാക്യത്തിൻറെ പരിഹാരമായി സ്റ്റേറ്റ് ട്രാൻസിഷൻ സമവാക്യം നിർവചിക്കപ്പെടുന്നു അതിനാൽ നമുക്ക് ലീനിയർ സമയ മാറ്റമില്ലാത്ത സമവാക്യം ഇതാണ് നമുക്ക് ഉള്ള സ്റ്റേറ്റ് സമവാക്യം ഇപ്പോൾ മുകളിലുള്ള സമവാക്യം ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യം പരിഹരിക്കുന്നതിനുള്ള ക്ലാസിക്കൽ രീതി ഉപയോഗിച്ച് പരിഹരിക്കാനാകും അല്ലെങ്കിൽ നമുക്ക് ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിക്കാം അതിനാൽ നമ്മൾ ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിക്കുകയാണെങ്കിൽ മുകളിലുള്ള സമവാക്യം നിങ്ങൾക്ക് ലാപ്ലേസ് ഡൊമെയ്നിൽ എഴുതാം

അതിനാൽ x എന്നത് t 0 ൽ വിലയിരുത്തിയ പ്രാരംഭ സ്റ്റേറ്റ് വെക്റ്ററിനെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾ X കൾക്കായി പരിഹരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമവാക്യം നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ഇൻവെർസ് ലാപ്ലേസ് പരിവർത്തനം ഇരുവശത്തും എടുക്കുന്നതിൻറെ സഹായത്തോടെ നിങ്ങൾക്ക് ഈ സമവാക്യത്തിൽ നിന്ന് നേടാൻ കഴിയുന്ന സ്റ്റേറ്റ് പരിവർത്തന സമവാക്യം അതിനാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മൂല്യം ലഭിക്കുന്നു അതിനാൽ സിസ്റ്റത്തിൻറെ ഏകതാനമായ ഔട്ട്പുട്ട്ൻറെ കാര്യത്തിൽ നിങ്ങൾ കണ്ട പദത്തിന് പുറമേ ഈ പദം നിങ്ങൾക്ക് ലഭിച്ചു കാരണം ഇപ്പോൾ നിങ്ങൾ സിസ്റ്റത്തിൽ നിർബന്ധിത പ്രവർത്തനം ചേർത്തു അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് എഴുതാൻ കഴിയുക നിങ്ങൾക്ക് ഈ പദം സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് അല്ലാതെ മറ്റൊന്നുമല്ല തുടർന്ന് നിങ്ങൾക്ക് x ലഭിക്കുന്നത് t 0 ന് എന്ന സമയത്തിനാണ് അതിനാൽ നിങ്ങൾക്ക് ഉം കൂടാതെ ഈ ഘടകത്തിൻറെ ഇൻവെർസ് ലാപ്ലേസ് പരിവർത്തനവും ലഭിക്കും അതിനാൽ ഇൻവെർസ് ലാപ്ലേസ് പരിവർത്തനത്തിൻറെ അടിസ്ഥാന സിദ്ധാന്തം നിങ്ങൾ ഉപയോഗിക്കും നിങ്ങൾക്ക് ഇത് എന്ന് എഴുതാം അതിനാൽ നിങ്ങൾക്ക് ലഭിച്ചത് ഇതാണ് സിസ്റ്റത്തിൽ നിങ്ങൾ നിർബന്ധിത പ്രവർത്തനം നടത്തുമ്പോൾ ഔട്ട്പുട്ട് ആയ സ്റ്റേറ്റ് ട്രാൻസിഷൻ സമവാക്യം ഇപ്പോൾ പ്രാരംഭ സമയം നിർവചിക്കുമ്പോൾ ഇത് നിർവചിച്ചിരിക്കുന്നത് സമയം t 0 ആണ് ഇപ്പോൾ പ്രാരംഭ സമയം മറ്റേതെങ്കിലും സമയം എന്ന് പറഞ്ഞാൽ t0 അനുബന്ധ പ്രാരംഭ അവസ്ഥ ഇപ്പോൾ x ആയി മാറും ഒപ്പം ഒരു ഇൻപുട്ട് ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു 0 എന്നതിനേക്കാൾ വലുതായ ഏത് സമയത്തും ഇങ്ങനെ എഴുതാം അതിനാൽ മുമ്പത്തെ സമവാക്യത്തിൽ നിങ്ങൾ t t0 ഇടുകയും ലളിതമാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കും ഇപ്പോൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ സമവാക്യം നിർണ്ണയിച്ചുകഴിഞ്ഞാൽ സ്റ്റേറ്റ് ഔട്ട്പുട്ട് വെക്റ്റർ നിങ്ങൾക്ക് പ്രാരംഭ അവസ്ഥയുടെ പ്രവർത്തനമായും ഇൻപുട്ട് വെക്ടറായും പ്രകടിപ്പിക്കാൻ കഴിയും എന്നത് ഔട്ട്പുട്ട് സമവാക്യത്തിൽ നൽകിക്കഴിഞ്ഞാൽ അപ്പോൾ ഔട്ട്പുട്ട് സമവാക്യം എന്താണ് നമുക്ക് ഔട്ട്പുട്ട് സമവാക്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് അതിനാൽ ഇൻപുട്ട് ലഭ്യമാകുന്ന സിസ്റ്റത്തിൻറെ ഔട്ട്പുട്ട് സമവാക്യം ഇതാണ് ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം എടുത്ത് ആദ്യം സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് കണ്ടെത്താൻ ശ്രമിക്കാം അതിനാൽ പറയുന്ന സ്റ്റേറ്റ് സമവാക്യം നമുക്ക് പരിഗണിക്കാം അതിനാൽ ഇത് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഇപ്പോൾ നമുക്ക് ചോദ്യത്തിന് കോഫിഷ്യന്റ് മെട്രിക്സ് ലഭിച്ചു അത് t≥0 ന് u 1 ആയതിനാലാണ് ഇത് 1 ആയത് അതിനാൽ ഇപ്പോൾ നമ്മൾ ആദ്യം സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് എന്തായിരിക്കും ആദ്യം നമുക്ക് യുടെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കാം അതിനാൽ ൻറെ ഇൻവെർസ് മാട്രിക്സ് ഇപ്പോൾ ഇതിൻറെ ഇൻവെർസ് ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് കണ്ടെത്താൻ കഴിയും അതിനാൽ നിങ്ങൾ ഇൻവെർസ് ലാപ്ലേസ് പരിവർത്തനം എടുക്കുമ്പോൾ അതിനാൽ മാട്രിക്സിൻറെ ഇൻവെർസ് ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് നേടാനാകും ഇപ്പോൾ t≥0 നായുള്ള സ്റ്റേറ്റ് പരിവർത്തന സമവാക്യം ഇപ്പോൾ t≥0 നായുള്ള സ്റ്റേറ്റ് ട്രാൻസിഷൻ സമവാക്യത്തിൻറെ മൂല്യം നിങ്ങൾ കണ്ടെത്തി u എന്നിവയുടെ മൂല്യവും ചോദ്യത്തിൽ നൽകിയിരിക്കുന്നു

അതിനാൽ 0 ൽ കൂടുതലുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റേറ്റ് ട്രാൻസിഷൻ സമവാക്യമാണിത് ഇപ്പോൾ സ്റ്റേറ്റ് സമവാക്യങ്ങളും ഹൈ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം അതിനാൽ നമുക്ക് ഒരു ഡിഫറൻഷ്യൽ സമവാക്യം പരിഗണിക്കാം അതിനാൽ നിങ്ങൾക്ക് ഉള്ളത് മൂന്നാമത്തെ ഓർഡർ സമവാക്യം ആണ് അതിനാൽ ഇത് ഉയർന്ന ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം നൽകിയിട്ടുണ്ട് ഇത് കണ്ടെത്തേണ്ടതുണ്ട് അതിനെ സ്റ്റേറ്റ് സമവാക്യങ്ങളാക്കി മാറ്റേണ്ടതുണ്ട് അതിനാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഏറ്റവും ഉയർന്ന ഓർഡർ ഡെറിവേറ്റീവ് പദം സജ്ജമാക്കി നമ്മൾ ആദ്യം സമവാക്യം പുനക്രമീകരിക്കണം അതിനാൽ നിങ്ങൾ ഇത് ഇടതുവശത്ത് എടുക്കുകയാണെങ്കിൽ ഇത് മാറും ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് വേരിയബിളുകൾ നിർവചിക്കാം അതിനാൽ സ്റ്റേറ്റ് സമവാക്യങ്ങളെ വെക്റ്റർ മാട്രിക്സ് സമവാക്യം പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ A യുടെ മൂല്യം എന്താണ് നിങ്ങൾ ഉരുത്തിരിഞ്ഞ ഈ മൂന്ന് സമവാക്യങ്ങൾ കണ്ടാൽ എ ബി എന്നിവയുടെ മൂല്യം ഇതുപോലെ കണ്ടെത്താം ഔട്ട്പുട്ട് സമവാക്യം അതിനാൽ ഇതുപയോഗിച്ച് സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സിനെക്കുറിച്ചും സ്റ്റേറ്റ് ട്രാൻസിഷൻ സമവാക്യത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്ത ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം